ഈ ലെക്ച്ചറിൽ നാം സ്കേറ്ററിങ് പരാമീറ്ററിന്റെ സവിശേഷതകൾ ആണ് നോക്കുക അത് നാം പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ ടൂൾ ആണ് ഇതിൽ ആദ്യം തന്നിരിക്കുന്ന Z മാട്രിക്സ് എന്നത് നമുക്ക് പരിചതമായ ടൂൾ ആണ് അപ്പോൾ ഈ S പാരാമീറ്റർ എന്നത് Z പരാമീറ്ററുമായി ഈ രീതിയിൽ ബന്ധിച്ചിരിക്കുന്നു നിങ്ങൾക്കു Z മാട്രിക്സ് അറിയാമെങ്കിൽ അതിൽ നിന്നും S പാരാമീറ്റർ കണ്ടെത്താനാകും അപ്പോൾ ഏതൊരു ല൦ബ്ഡ് നെറ്റ്വർക്കിനും Z പാരാമീറ്റർ അറിയാമെങ്കിൽ നമുക്ക് S പാരാമീറ്റർ കണ്ടെത്താനാകും ഒരു ല൦ബ്ഡ് നെറ്റ്വർക്ക് പ്രോബ്ലെത്തിലൂടെ നാം അത് നോക്കുന്നതാണ് എന്നാൽ ഈ S പാരാമീറ്റർ നേരെ കണ്ടെത്തണമെങ്കിൽ അത് കുറച്ചു പ്രയാസമാണ് എന്തെന്നാൽ ല൦ബ്ഡ് പരാമീറ്ററിൽ ഇൻസിഡന്റ് വോൾടേജ് റിഫ്ലെക്ടഡ് വോൾടേജ് ട്രാൻസ്മിറ്റഡ് വോൾടേജ് എന്നിവ കണ്ടെത്താൻ പ്രയാസമാണ് അതിനാൽ S പാരാമീറ്റർ കണ്ടെത്താനായി Z പാരാമീറ്റർ ഉപയോഗിക്കുക എന്നത് എളുപ്പമാണ് നേരെ മറിച്ചു പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷനിൽ അതായതു നിങ്ങൾക്കു S പാരാമീറ്റർ Z പാരാമീറ്റർ കണ്ടെത്തുക എന്നതും സാധ്യമാണ് ഈ മൈക്രോവേവ് നെറ്റ്വർക്കിൽ ഈ പറഞ്ഞ കാര്യ൦ വളരെ സഹായപ്രദമാണ് എന്തെന്നാൽ ഈ മൈക്രോവേവ് നെറ്റ്വർക്കിൽ ഇൻസിഡന്റ് വോൾടേജ് റിഫ്ലെക്ടഡ് വോൾടേജ് ട്രാൻസ്മിറ്റഡ് വോൾടേജ് എന്നിവ കണ്ടെത്താൻ എളുപ്പമാണ് അപ്പോൾ അവയുടെ അനുപാതം കണ്ടെത്തുക എന്നതും എളുപ്പമാണ് അതിനാൽ S പാരാമീറ്റർ എന്നതും എളുപ്പത്തിൽ കണ്ടെത്താം അതിനു ശേഷം Z പാരാമീറ്റർ നമുക്ക് ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട് എന്ന് കരുതുക ഇനി അതിൽ S മാട്രിക്സ് എന്നത് എളുപ്പത്തിൽ കണ്ടെത്താം എന്നാൽ നമുക്ക് കണ്ടെത്തേണ്ടത് Z പാരാമീറ്റർ ആണെങ്കിൽ ആദ്യം S പാരാമീറ്റർ കണ്ടെത്തുക അതിനു ശേഷം Z പാരാമീറ്റർ കണ്ടെത്തുക അപ്പോൾ ഈ ബന്ധം നമ്മെ ഒരുപാടു സഹായിക്കുന്നുണ്ട് ഒരിക്കൽ നാം Z അറിഞ്ഞാൽ പിന്നെ Z Y തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് Y പാരാമീറ്റർ കണ്ടെത്താനാകും അതുപോലെ തന്നെ Z H എന്നിവ തമ്മിലും ബന്ധം ഉണ്ട് അപ്പോൾ എനിക്ക് Z അറിയാമെങ്കിൽ h എനിക്ക് കണ്ടെത്താനാകും അതുപോലെ Z പിന്നെ a b c d തമ്മിലും ബന്ധം ഉണ്ട് അപ്പോൾ എനിക്ക് Z അറിയാമെങ്കിൽ abcd എന്നിവയും കണ്ടെത്താനാകും ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കു എളുപ്പത്തിൽ പോകാനാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള ഉപദേശം എന്നത് നിങ്ങൾക്കുള്ളത് ല൦ബ്ഡ് എലമെന്റ് ആണെങ്കിൽ അതിന്റെ Z അല്ലെങ്കിൽ Y കണ്ടെത്താൻ നോക്കുക അതാണ് കൂടുതൽ സൌകര്യം ഇനി S കണ്ടെത്തണം എങ്കിൽ മുമ്പ് പറഞ്ഞ ഫോർമുല ഉപയോഗിക്കുക ഇനി നമുക്കുള്ളത് ഒരു ഡിസ്ട്രിബ്യുട്ടഡ് ലൈൻ ആണെങ്കിൽ ആദ്യം S കണ്ടെത്തുക പിന്നെ Z Y പല തവണ നാം കണ്ട കാര്യമാണ് ഒരു നെറ്റ്വർക്ക് എന്നത് നാം ഒരു റേസിപ്രോക്കൽ അല്ലാത്ത ഉപകരണം ഉപയോഗിച്ചാലും റേസിപ്രോക്കൽ ആകുന്നു ഒരു പ്രസിദ്ധമായ റേസിപ്രോക്കൽ ഡിവൈസ് എന്നത് ഫെറൈറ്റ് ആണ് അപ്പോൾ ഈ ഫെറൈറ്റ് നാം ഉപയോഗിച്ചില്ലെങ്കിൽ അഥവാ റേസിപ്രോക്കൽ അല്ലാത്ത ഉപകരണം ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുവിധപ്പെട്ട പാസ്സീവ് ഡിവൈസ് എല്ലാം സിമെട്രിക് അല്ലെങ്കിൽ റേസിപ്രോക്കൽ ആയിരിക്കും അഥവാ റേസിപ്രോക്കൽ ആണെങ്കിൽ സ്കേറ്ററിങ് മാട്രിക്സ് എന്നത് സിമെട്രിക് ആയിരിക്കും ഈ സിമെട്രിക് എന്നാൽ S പിന്നെ S' എന്നിവ തുല്യമായിരിക്കും എനിക്ക് ഒരു മാട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കാനാകുന്നതാണ് അപ്പോൾ ഒരു റേസിപ്രോക്കൽ നെറ്റ്വർക്കിൽ s മാട്രിക്സ് അവയുടെ ട്രാൻസ്പോസ് എന്നിവ തുല്യമായിരിക്കും അപ്പോൾ അതിന്റെ ഗുണം എന്നത് നമുക്ക് ഒരു നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് എന്നത് നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടെത്താനാകുന്നതാണ് പിന്നെ ഈ ഒരു സവിശേഷത ഉള്ളതുകൊണ്ട് അത് ഒരു റേസിപ്രോക്കൽ നെറ്റ്വർക്ക് ആണോ എന്നും എളുപ്പത്തിൽ പരിശോധിക്കാം ഇനി ഒരു ലോസ് ഇല്ലാത്ത നെറ്റ്വർക്ക് പരിഗണിക്കുക ഈ ലോസ് ഇല്ലാത്ത എന്നതിന്റെ അർഥം അതിൽ പവർ ഡിസിപ്പേഷൻ ഇല്ല എന്നതാണ് അപ്പോൾ അതിന്റെ ഉള്ളിൽ ലോസ് ഒന്നും ഉണ്ടാകുന്നതല്ല അതാണ് ലോസ് ലെസ് നെറ്റ്വർക്ക് അപ്പോൾ ഒരു ലോസ് ലെസ് നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നു ഒരു നെറ്റ്വർക്കിന്റെ കോൺജുഗേറ്റ് എന്നത് അതിന്റെ ട്രാൻസ്പോസിന്റെ ഇൻവെർസ് ആണെങ്കിൽ അതാണ് യൂണിറ്ററി മാട്രിക്സ് അപ്പോൾ ഒരു ലോസ് ലെസ് നെറ്റ്വർക്കിന്റെ S മാട്രിക്സ് എന്നത് യൂണിറ്ററി മാട്രിക്സ് ആയിരിക്കും ഇനി ഒരു യൂണിറ്ററി മാട്രിക്സിൽ എലെമെന്റുകൾ ബന്ധപ്പെട്ടിരിക്കുന്നതു താഴെ പറയുന്നത് പോലെ ആയിരിക്കും ഈ ഡെൽറ്റയേ ക്രോനേക്കർ എന്ന് പറയാം എന്തെന്നാൽ ആകുമ്പോൾ ഈ ഡെൽറ്റ 1 ആകുന്നു പിന്നെ ആണെങ്കിൽ ഈ ഡെൽറ്റ എന്നത് 0 ആകുന്നു ഇതിനെ രണ്ടു ഭാഗമായി മുറിക്കാം

അതിന്റെ അർഥം യുടെ ഏതെങ്കിലും ഒരു കോളം 1 ആണെങ്കിൽ അതായതു S മാട്രിക്സിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക കോളം നാം ആ മാട്രിക്സ് കോൺജുഗേറ്റിന്റെ അതെ കോളവുമായി ഡോട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം 1 എന്ന് ലഭിക്കും അപ്പോൾ ഒരു കോളം അതെ കോളമായി തന്നെ കോൺജുഗേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം 1 ലഭിക്കും ഇനി വേറെ കോളം ആണെങ്കിൽ ഉത്തരം 0 ലഭിക്കും അപ്പോൾ യൂണിറ്ററി ആണെങ്കിൽ ഒരേ സമയം ഈ രണ്ടു കണ്ടിഷനുകളും നിറവേറ്റിയിരിക്കണം അഥവാ ഒരെണ്ണമെങ്കിലും അങ്ങനെ അല്ല എങ്കിൽ അത് ഒരു യൂണിറ്ററി മാട്രിക്സ് ആയിരിക്കില്ല അപ്പോൾ ഒരു യൂണിറ്ററി മാട്രിക്സ് എന്നതിൽ ആണ് ഇനി എന്നതിൽ ഈ കണ്ടീഷൻ ഉണ്ടായിരിക്കണം അതിന്റെ അർഥം ഒരേ കോളം തന്നെ അതിന്റെ കോൺജുഗേറ്റിന്റെ അതെ കോളമായി ഡോട്ട് ചെയ്താൽ നിങ്ങൾക്കു 1 കിട്ടും ഇനി മറ്റൊരു കോളം വച്ച് ഡോട്ട് ചെയ്താൽ എൻ്റെ കയ്യിൽ ഉള്ളത് ഇതാണെന്നു കരുതുക

ആദ്യം ഞാൻ ഈ കോളം പിന്നെ ഈ കോളം എന്നിവ നോക്കുന്നു ഇനി ഈ മാട്രിക്സ് യൂണിറ്ററി ആണെങ്കിൽ എനിക്ക് താഴെ പറയുന്നത് പോലെ കിട്ടും ഇതാണ് ആദ്യത്തെ സവിശേഷത അതിന്റെ അർഥം ഇത് യൂണിറ്ററി ആണെങ്കിൽ എനിക്ക് 3 സമവാക്യങ്ങൾ ഉണ്ടാകും എന്നാൽ ഇതുപോലെ തന്നെ വേറെ 3 സമവാക്യങ്ങൾ കൂടെ ഉണ്ടാകും അത് രണ്ടു വ്യത്യസ്ത കോളങ്ങൾ പരിഗണിക്കുമ്പോൾ ആയിരിക്കും അപ്പോൾ അത് തീർച്ചയായും 0 ആയിരിക്കും

യൂണിറ്ററി ആകണമെങ്കിൽ ഈ മൂന്ന് പിന്നെ ഈ മൂന്ന് അങ്ങനെ ആകെ ആറു സമവാക്യങ്ങൾ നിറവേറ്റേണ്ടതാണ് അപ്പോൾ അത് യൂണിറ്ററി അല്ലെങ്കിൽ ലോസ് ലെസ്സ് ആയിരിക്കും ലോസ് ലെസ്സ് നെറ്റ്വർക്കിന്റെ സ്കേറ്ററിങ് പാരാമീറ്റർ മാട്രിക്സ് എന്നത് ഈ സമവാക്യങ്ങൾ നിറവേറ്റേണ്ടതാണ് നാം പറയുന്നത് എന്താണെന്നു വച്ചാൽ ഒരേ കോളം തന്നെ അതിന്റെ കോൺജുഗേറ്റിന്റെ അതെ കോളമായി ഡോട്ട് ചെയ്താൽ നിങ്ങൾക്കു 1 കിട്ടും ഇനി മറ്റൊരു കോളം വച്ച് ഡോട്ട് ചെയ്താൽ നിങ്ങൾക്കു 0 കിട്ടും അപ്പോൾ ഈ രണ്ടു കാര്യങ്ങളും ഒരുമിച്ചു നിറവേറ്റേണ്ടതാണ് ഏതെങ്കിലും ഒരെണ്ണം സാധിച്ചില്ല എങ്കിൽ അത് ഒരു യൂണിറ്ററി സ്കേറ്ററിങ് മാട്രിക്സ് ആകില്ല അപ്പോൾ ആ നെറ്റ്വർക്ക് എന്നത് ലോസ് ലെസ്സ് അല്ല ഇനി നമുക്ക് ഒരു റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ് ഉള്ളത് എന്ന് കരുതുക തീർച്ചയായും നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് എന്നത് പവർ ഡിസ്സിപ്പേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആ നെറ്റ്വർക്ക് എന്നത് ലോസ് ലെസ്സ് ആകില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഈ നെറ്റ്വർക്കിൽ റെസിസ്റ്റൻസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്കു കാണാം ഈ S മാട്രിക്സ് എന്നത് ലോസ് ലെസ്സ് ആകില്ല ഈ നെറ്റ്വർക്ക് എന്നത് ഒരേ സമയം ലോസ് ലെസ്സ് പിന്നെ റേസിപ്രോക്കൽ കൂടെ ആണെങ്കിൽ ഈ സവിശേഷത കോളത്തിനും അതുപോലെ തന്നെ റോ ആണെങ്കിലും ബാധിക്കും എന്തെന്നാൽ റേസിപ്രോക്കൽ ആണെങ്കിൽ S മാട്രിക്സ് അതിന്റെ ട്രാൻസ്പോസ് എന്നിവ തുല്യമാണ് കാരണം ട്രാൻസ്പോസ് കണക്കു കൂട്ടുമ്പോൾ റോ എന്നത് കോളം ആയി മാറും അപ്പോൾ ഇവിടെ ഈ സവിശേഷത കോളത്തിനു ബാധകമാണ് റേസിപ്രോക്കൽ ആകുമ്പോൾ അത് റോ എന്നതിനും ബാധകമാണ് അതായതു ഈ റോ ഇവിടെ കോൺജുഗേറ്റ് ചെയ്താൽ നമുക്ക് 1 കിട്ടും പിന്നെ കോൺജുഗേറ്റ് ചെയ്യുന്നത് മറ്റൊരു റോ ആണെങ്കിൽ 0 കിട്ടും ഇതെല്ലാം തന്നെ നാം ഒരു നെറ്റ്വർക്ക് സോൾവ് ചെയ്യുമ്പോൾ ആവശ്യമാണ് ഇതെല്ലാം തന്നെ വളരെ ഉപയോഗപ്രദമായ സവിശേഷതകൾ ആണ് ഇനി 2 പോർട്ട് നെറ്റ്വർക്കിൽ കാണുന്ന മറ്റൊരു കാര്യം നോക്കാം നമുക്ക് എന്നത് ഉണ്ട് പിന്നെ എന്നത് എന്താണ് മാച്ച് ലോഡ് ചെയ്യുക പിന്നെ എന്നത് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആണ് പൊതുവെ അതായതു പോർട്ട് 1 ലെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് അത് നമുക്ക് എന്ന് എഴുതാം പക്ഷെ എന്താണ് ഈ കണ്ടീഷനുകൾ ചേർക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടും അപ്പോൾ നമുക്ക് പറയാം പോർട്ട് 2 എന്നത് ടെർമിനേറ്റ് ചെയ്യുന്നത് ഒരു മാച്ച് ലോഡ് ആണെങ്കിൽ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് മാത്രമായിരിക്കും പിന്നെ എന്നത് തുല്യമായിരിക്കും അതല്ല എങ്കിൽ വ്യത്യസ്തമായ ആയിരിക്കും അതിനാലാണ് നാം പൊതുവെ ഈ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടു തന്നെ ആദ്യത്തെ ഉത്തരം നോ ആണ് രണ്ടാമത്തെ ഉത്തരം യെസ് ആണ് മറ്റു പോർട്ടുകളും ഇതുപോലെ മാച്ച് ആയാൽ മാത്രമേ എന്നത് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആവുകയുള്ളൂ പിന്നെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നത് വളരെയധികം തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉള്ളതാണ് എന്നാൽ ഈ കണ്ടീഷനിൽ അത് തുല്യമാണ് എന്നാൽ അങ്ങനെ അല്ല എങ്കിൽ അത് രണ്ടും വ്യത്യസ്തമാണ് ഈ എന്നത് ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ആണോ വീണ്ടും നമ്മുടെ ഉത്തരം എന്നത് യെസ് അല്ലെങ്കിൽ നോ ആണ് അത് യെസ് ആകുന്നു അതായതു പോർട്ട് m ൽ നിന്നും പോർട്ട് n ലേക്കുള്ള ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ആണ് അപ്പോൾ മറ്റുള്ള പോർട്ടുകൾ എല്ലാം മാച്ച് ടെർമിനേറ്റ് ചെയ്തിരിക്കണം അപ്പോൾ എന്ന പാരാമീറ്റർ എന്നത് ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ആയിരിക്കണം പോർട്ട് 2 ആണ് പരിഗണിക്കുന്നതെങ്കിൽ അത് ആണ് പോർട്ട് 1 ൽ നിന്നും പോർട്ട് 2 ലേക്കുള്ള ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് എന്നതിന്റെ ഉത്തരം യെസ് ആകും നിങ്ങൾ ഇത് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി രണ്ടാമത്തെ പോർട്ട് എന്നത് മാച്ച് ടെർമിനേറ്റ് ആണെങ്കിൽ അതായതു വീണ്ടും ഇവിടെ ആക്കുകയാണെങ്കിൽ നമുക്ക് പറയാം എന്നത് ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ആണ് അപ്പോൾ ഒരു നെറ്റ്വർക്ക് അനലൈസർ അളക്കുന്നത് ആണ് ഇനി യഥാർത്ഥ കേസ് എടുക്കുകയാണെങ്കിൽ പോർട്ട് 1 ലും പോർട്ട് 2 ലും ടെർമിനേറ്റ് ചെയ്യുന്നതു വ്യത്യസ്തമായാണ് അത് വച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ചില റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഉണ്ടെന്നും പറയാം പോർട്ട് 2 മാച്ച് ആണെങ്കിൽ അപ്പോൾ എന്നത് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആണ് ഇനി പോർട്ട് 2 മാച്ച് ആണെങ്കിൽ എന്നത് ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് ആണ് ഇനി ഈ S പാരാമീറ്റർ എന്നത് ഒരു നെറ്റ്വർക്കിന്റെ സവിശേഷതയാണ് അപ്പോൾ S പാരാമീറ്റർ എന്നത് പോർട്ട് ടെർമിനേഷൻ എന്നതിനെ ആശ്രയിക്കുന്നില്ല പോർട്ട് ടെർമിനേഷൻ മാറ്റുകയാണെങ്കിൽ S പാരാമീറ്റർ എന്നത് മാറുന്നതല്ല എന്നാൽ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് പിന്നെ ട്രാൻസ്മിഷൻ കോ എഫിഷ്യന്റ് എന്നിവ പോർട്ട് ടെർമിനേഷൻ അനുസരിച്ചു മാറുന്നതാണ് അപ്പോൾ S പാരാമീറ്റർ എന്നത് ഒരു നെറ്റ്വർക്കിന്റെ സവിശേഷതയാണ് അത് എക്സൈറ്റഷൻ എന്നതിനെയും ആശ്രയിക്കുന്നില്ല അപ്പോൾ അവ പോർട്ട് ടെർമിനേഷൻ പിന്നെ എക്സൈറ്റഷൻ എന്നിവ അനുസരിച്ചു മാറുന്നില്ല നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ പരാമർശിക്കാനാകുന്നതാണ് Z പാരാമീറ്റർ എന്നത് വോൾടേജിനെയോ കറന്റിനെയോ ആശ്രയിക്കുന്നില്ല എന്തെന്നാൽ അതും നെറ്റ്വർക്കിന്റെ സവിശേഷതയാണ് അതും എക്സൈറ്റഷൻ റെസ്പോൺസ് എന്നിവയെ ആശ്രയിക്കുന്നില്ല ആദ്യത്തെ ലെക്ച്ചറിൽ നാം കണ്ട ഒരു കാര്യം വേവ് ഗൈഡ് പോലെയുള്ള ഉപകരണങ്ങളിൽ മൈക്രോവേവ് ഫ്രീക്വൻസിയിൽ കൃത്യമായി വോൾടേജ് നിർണയിക്കുക എന്നത് സാധ്യമല്ല എന്നാൽ ചില നിബന്ധനകളിൽ കൂടെ അത് ചെയ്യാം എന്നാൽ ആ നിർവചനം ഒരു പ്രത്യേക ടെർമിനലിൽ അല്ലെങ്കിൽ പോർട്ടിൽ ആകണം എന്നത് തീർച്ചയാണ് അവിടെ അതുല്യമായി വോൾടേജ് കറന്റ് എന്നിവ നിർവചിക്കാം അപ്പോൾ വോൾടേജ് നിർവചിക്കുന്നത് പോർട്ടിൽ ആണ് അതുപോലെ S പാരാമീറ്റർ എന്നതും പോർട്ടിന്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ പോർട്ട് എനിക്ക് മാറ്റാനാകുമെങ്കിൽ അതായത് ഈ പോർട്ട് എനിക്ക് വലിച്ചു നീട്ടാനാകുമെങ്കിൽ ഈ ടെർമിനൽ പ്ലെയിൻ എന്നതും എനിക്ക് വലിച്ചു നീട്ടാം അങ്ങനെ ചെയ്യുമ്പോൾ വോൾടേജ് S പാരാമീറ്റർ എന്നിവയെ വീണ്ടും നിർവചിക്കണം എന്തെന്നാൽ അവ മാറുന്നതാണ് ഈ കേസ് നോക്കുക എനിക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എനിക്ക് ഇവിടെ പോർട്ടുകൾ ഉണ്ട് ഇവിടെ പോർട്ട് 1 പിന്നെ പോർട്ട് 2 പോർട്ട് 9 അങ്ങനെ ഇതൊരു ഇൻപുട് നെറ്റ്വർക്ക് ആണ് ഇനി ഇവിടെ ഞാൻ ഈ പോർട്ട് നീട്ടി ഈ പ്ലെയിനിൽ ഇടുന്നതിനു പകരം ഇവിടെ ഈ ഡാഷ് ഇട്ട പ്ലെയിനിൽ ആണെങ്കിൽ എനിക്ക് പറയാം ഞാൻ ഈ പോർട്ടിനെ എക്സ്റ്റന്റ് ചെയ്തു അപ്പോൾ തീർച്ചയായും ഇത് ആണ് അത് ഇവിടെ മാറി അപ്പോൾ ഇവിടെ S പാരാമീറ്റർ എന്നത് മൊത്തത്തിൽ മാറ്റം വന്നു പുതിയതിനെ നാം എന്ന് വിളിക്കുന്നതിന് പകരം എന്ന് വിളിക്കുന്നു അപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ബന്ധം എന്താണ് നാം ഈ കൊടുത്ത എക്സ്റ്റൻഷൻ എന്നത് എല്ലാ പോർട്ടിലും ഒരു ഇലെക്ട്രിക്കൽ ലെങ്ത് തീറ്റ യിൽ ആവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം അതൊരു ട്രാൻസ്മിഷൻ ലൈൻ ആണ് അത് ഇലെക്ട്രിക്കൽ ലെങ്ത് തീറ്റ ഉള്ള ഒരു ലോസ് ലെസ്സ് ട്രാൻസ്മിഷൻ ലൈൻ ആണ് അപ്പോൾ യഥാർത്ഥ നീളം l ആണെങ്കിൽ അതിന്റെ ഇലെക്ട്രിക്കൽ ലെങ്ത് തീറ്റ എന്നത് താഴെ പറയുന്ന രീതിയിൽ ആണ് ഇവിടെ ഇലെക്ട്രിക്കൽ ലെങ്ത് എന്നത് ആണ് S ' ആണ് ഇവിടെ പുതിയത് ഇവിടെ ഈ പോർട്ട് 1 ൽ S പാരാമീറ്റർ ആണെങ്കിൽ അതുപോലെ തന്നെ തീറ്റ എക്സ്റ്റന്റ് ചെയ്തു എന്ന് പറയാം ഇനി നാം പറയുക എന്നാണ് അപ്പോൾ ഈ പോർട്ട് 1 ൽ പിന്നെ പോർട്ട് 2 ൽ അങ്ങനെ അപ്പോൾ ഈ മാട്രിക്സ് എഴുതുക ഇങ്ങനെ ആയിരിക്കും ഇതാണ് നിങ്ങളുടെ പുതിയ പോർട്ട് നിർവചനം ഈ S എന്നിവ ബന്ധപ്പെട്ടിരിക്കുന്നത് പോർട്ട് എക്സ്റ്റൻഷൻ വഴി ആണ് പിന്നെ മറ്റൊരു കാര്യം പല പോർട്ടുകളിലും നാം പാരാമീറ്റർ നിർവചിക്കുന്നു ഇവിടെ നാം പറയുന്നു ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് ഓരോ പോർട്ടിലും വ്യത്യസ്തമാണ് ഇത് സംഭവിക്കുന്നതാണ് നാം പറയുന്നു ഒരു വേവ് ഗൈഡിൽ 5 മോഡുകൾ ഉണ്ട് ഇവിടെ ഒരു പോർട്ട് മാത്രമാണെങ്കിലും അത് അങ്ങനെ ആണ് എന്ന് പറയുന്നു എന്നാൽ ഇലെക്ട്രിക്കൽ ആയി പറയുകയാണെങ്കിൽ ഇവിടെ ഫലത്തിൽ പല പോർട്ടുകൾ ഉണ്ട് അവയിലെ പോർട്ട് ഇമ്പിഡൻസ് എന്നത് പലതാണ് അത് പിന്നെ എന്നിങ്ങനെ ആണ് എന്ന് പറയാം അപ്പോൾ പോർട്ട് ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് എന്നത് തുല്യമല്ല ഈ കേസിൽ നാം നിർദേശിക്കുന്നത് നിങ്ങൾ ഒരു പോസിറ്റീവിലേക്കു പോകുന്ന വോൾടേജ് നിർവചിക്കുക പിന്നെ ഒരു റിഫ്ലെക്ടഡ് വോൾടേജ് അതായതു എന്നിവയും നോക്കുക അപ്പോൾ നു പകരം നമുക്ക് പറയാം എന്നിവ രണ്ടു വോൾട്ടേജുകൾ ആണ് അത് സാങ്കല്പിക വോൾടേജ് ആണ് അത് എന്നിങ്ങനെയാണ് ഇതിന്റെ ഭംഗി എന്നത് ഇനി നമുക്ക് താഴെ പറയുന്നത് പോലെ എഴുതാം

എന്നതും ആശ്രിതമാണ് ഇവിടെ നോക്കിയാൽ അറിയാം അവിടെ യാതൊരു ഇമ്പിഡൻസും ഇല്ല അപ്പോൾ ഇവിടെ വോൾടേജ് കറന്റ് എന്നിവ ഇമ്പിഡെൻസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ പവർ അല്ല അത് യുടെ രൂപത്തിൽ എഴുതുമ്പോൾ എന്നാൽ വോൾട്ടേജിന്റെ രൂപത്തിൽ ആണെങ്കിൽ അത് ഇമ്പിഡെൻസിനെ ആശ്രയിക്കുന്നു അപ്പോൾ ഈ പവർ എന്നത് പോർട്ട് ഇമ്പിഡൻസിനെ ആശ്രയിക്കുന്നില്ല ഈ പവർ എന്നത് പല കേസിലും ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ പവർ എന്നതിന്റെ എക്സ്പ്രെഷൻ പോർട്ട് ഇമ്പിഡെൻസിനെ ആശ്രയിക്കാത്ത രീതിയിൽ ആക്കണമെങ്കിൽ ഈ പൊതുവായ S പാരാമീറ്റർ ഉപയോഗിക്കാനാകുന്നതാണ് ഈ എന്നത് പോർട്ട് ഇമ്പിഡെൻസിനെ ആശ്രയിക്കുന്നു എന്നതും പോർട്ട് ഇമ്പിഡെൻസിനെ ആശ്രയിക്കുന്നു എന്നാൽ എന്നതിൽ ഒരു ഇമ്പിഡൻസും വരുന്നില്ല ഇത് ഇനി വരുന്ന കൺസെപ്റ് ആണ് ഇവിടെ നാം S പാരാമീറ്റർ പറഞ്ഞല്ലോ ഇവിടെ പല പോർട്ടുകൾ ഉള്ളത് കൊണ്ട് ഇവയുടെ രൂപത്തിൽ നമുക്ക് എഴുതാം എന്നാൽ ലളിതമായ കേസുകളിൽ അത് നമുക്ക് ആവശ്യമില്ല പൊതുവെ ഒരു പ്രത്യേക ഗൈഡിൽ പല മോഡുകൾ ഉള്ളതിനാൽ നമുക്ക് പൊതുവായ സ്കേറ്ററിങ് പാരാമീറ്റർ ഉപയോഗിക്കാനാകുന്നതാണ് ഇപ്പോൾ നാം പറഞ്ഞത് S പരാമീറ്ററിന്റെ സവിശേഷതകൾ ആണ് അടുത്ത ലെക്ച്ചറിൽ നാം നോക്കുക ഇൻസ്ട്രമെന്റ് നെറ്റ്വർക്ക് അനലൈസർ ആണ് അത് S പാരാമീറ്റർ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ്